ഹലോ ഇന്റൽ എസ്ജിഎക്സിനെക്കുറിച്ചുള്ള ക്ലാസ്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം എൻപിടിഎൽ സീരീസിന്റെ ഭാഗമായ secure systems എഞ്ചിനീയറിംഗിനായുള്ള കോഴ്സാണിത് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇന്റൽ എസ് ജി എക്സ് നെക്കുറിച്ചും പ്രോസസറിലെ ഈ പ്രത്യേക സവിശേഷതയെക്കുറിച്ചും കണ്ടു പ്രോസസർ യഥാർത്ഥത്തിൽ മെമ്മറി എങ്ങനെ കൈകാര്യം ചെയ്തു എൻക്ലേവുകൾക്കായി മെമ്മറി യഥാർത്ഥത്തിൽ അനുവദിച്ചതെങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ എൻക്ലേവിൽ എങ്ങനെ സംഭരിച്ചു തുടങ്ങിയവ ഞങ്ങൾ പരിശോധിച്ചു വീഡിയോ ക്ലാസ്സിന്റെ ഈ ഭാഗത്ത് ഇന്റൽ എസ് ജി എക്സ്നെ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ വീക്ഷണകോണിൽ നിന്ന് കൂടുതൽ നോക്കികാണും ആപ്ലിക്കേഷനുകൾ ഇന്റൽ എസ് ജി എക്സ് സവിശേഷത എങ്ങനെ ഉപയോഗിക്കും എൻക്ലേവുകൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ഈ സവിശേഷതകളെ പിന്തുണയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും അതിനാൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ "Innovative Instructions and Software Model for Isolated Execution" എന്ന ഈ പ്രത്യേക പേപ്പറിൽ ഉണ്ട് ഇത് HASP 2013ൽ പ്രസിദ്ധീകരിച്ചു കൂടാതെ ചില ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ ഇന്റലിൽ നിന്ന് കടമെടുത്തതാണ് എസ്ജിഎക്സ് പിന്തുണയ്ക്കുന്ന ഒരു സിസ്റ്റത്തിലെ ഒരു സാധാരണ ആപ്ലിക്കേഷൻ വികസനത്തിന് ആപ്ലിക്കേഷനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കേണ്ടതുണ്ട് അതിലൊന്ന് നിങ്ങൾ എൻക്ലേവിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിശ്വസനീയമായ ഭാഗവും ആപ്ലിക്കേഷന്റെ ശേഷിക്കുന്ന ഭാഗം നിലനിൽക്കുന്ന അവിശ്വസനീയമായ ഭാഗവുമാണ് ക്രിപ്റ്റോഗ്രഫി പാസ്വേഡുകൾ സംഭരിച്ചിരിക്കുന്ന പ്രദേശം എൻക്രിപ്ഷനും ഡീക്രിപ്ഷനും നടക്കുന്ന പ്രദേശം രഹസ്യ കീകൾ സൂക്ഷിക്കൽ തുടങ്ങിയവ ആയിരിക്കും വിശ്വസനീയമായ ഭാഗം ബാക്കിയുള്ള ഭാഗം ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുകൾ മറ്റ് ഇന്റർഫേസുകൾ പോലുള്ള പതിവ് ആപ്ലിക്കേഷനായിരിക്കാം നമ്മൾ മുമ്പ് കണ്ട ട്രസ്റ്റ്സോണിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വസനീയമല്ലാത്ത ആപ്ലിക്കേഷനും വിശ്വസനീയമായ ആപ്ലിക്കേഷനും ഒരേ address space ലാണ് വാസ്തവത്തിൽ വിശ്വസനീയമായ ഭാഗം ആ പ്രത്യേക അപ്ലിക്കേഷനിലെ ഒരു പ്രത്യേക പ്രദേശത്തേക്ക് മാപ്പുചെയ്തിരിക്കുന്നു അതിനാൽ സാധാരണഗതിയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ വിശ്വസനീയമല്ലാത്ത ഭാഗമായിരിക്കും വിശ്വസനീയമായ അപ്ലിക്കേഷനിലേക്ക് നീങ്ങുന്നതിന് ഒരു കോൾ ആവശ്യപ്പെടുന്നതുവരെ ആ അപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് തുടരും ഇത് പ്രധാനമായും എൻക്ലേവിലേക്കുള്ള ഒരു കോൾ ആണ് ഒരു അപ്ലിക്കേഷനിൽ എസ്ജിഎക്സ് യഥാർത്ഥത്തിൽ സംയോജിപ്പിക്കുന്നതിന് ആദ്യം ഒരു എൻക്ലേവ് സൃഷ്ടിക്കേണ്ടതുണ്ട് ആപ്ലിക്കേഷൻ സാധാരണയായി വിശ്വസനീയമല്ലാത്ത മോഡിൽ പ്രവർത്തിക്കും ആപ്ലിക്കേഷന് വിശ്വസനീയമായ ഫംഗ്ഷനെ വിളിക്കുന്നതിനേക്കാൾ എൻക്ലേവ് നെ വിളിക്കേണ്ടിവരുമ്പോൾ എൻക്ലേവ് അല്ലാത്ത മോഡിൽ നിന്ന് എൻക്ലേവ് മോഡിലേക്ക് സ്വിച്ചുചെയ്യുന്നു അപ്പോൾ ഘട്ടം 3 ൽ എൻക്ലേവ് ഫംഗ്ഷൻ നടപ്പിലാക്കുകയും സുരക്ഷയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നു അവസാനമായി മോഡ് എൻക്ലേവ് മോഡിൽ നിന്ന് വിശ്വസനീയമല്ലാത്ത അല്ലെങ്കിൽ എൻക്ലേവ് മോഡിലേക്ക് തിരികെ സ്വിച്ചുചെയ്യുകയും അപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് തുടരുകയും ചെയ്യുന്നു എസ്ജിഎക്സ് പ്രാപ്തമാക്കി അപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുകയും അപ്ലിക്കേഷനുകൾക്ക് എൻക്ലേവുകൾ ഉള്ളപ്പോഴും ഈ വിവിധ ഘട്ടങ്ങളാണ് ഉണ്ടാവുന്നത് ഈ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിനെ യഥാർത്ഥത്തിൽ പിന്തുണയ്ക്കുന്നതിന് ഇന്റലിന് കുറച്ച് നിർദ്ദേശങ്ങളുണ്ട് എൻക്ലേവുകൾ സൃഷ്ടിക്കുന്നതിനും വിശ്വസനീയമായ പ്രവർത്തനങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനുമായി ഇന്റൽ പ്രോസസറുകളുടെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഈ നിർദ്ദേശങ്ങൾ ചേർത്തിട്ടുണ്ട് ഈ പ്രത്യേക പ്രവർത്തനങ്ങൾ എന്താണെന്ന് ആദ്യം നോക്കാം ഒന്നാമതായി എസ്ജിഎക്സിനായുള്ള പ്രത്യേക എക്സ്റ്റൻഷനുകളെ രണ്ടായി വിഭജിച്ചിരിക്കുന്നു പ്രിവിലേജ്ഡ് നിർദ്ദേശങ്ങളും user level നിർദ്ദേശങ്ങളും privileged നിർദ്ദേശങ്ങൾ അടിസ്ഥാനപരമായി ഒരു സൂപ്പർ ഉപയോക്താവായി ഉപയോഗിക്കണം അവിടെ നിങ്ങൾക്ക് പേജുകൾ സൃഷ്ടിക്കാനും പേജുകൾ ചേർക്കാനും കൂടാതെ എൻക്ലേവ് നീക്കംചെയ്യുക സൃഷ്ടിക്കുക തുടങ്ങിയവയും സാധിക്കും കൂടാതെ പേജിംഗുമായി ബന്ധപ്പെട്ട വശങ്ങളായ ഒരു പേജ് eviction ഒരു പേജ് ലോഡു ചെയ്യുന്നത് എല്ലാം privileged instruction ന്റെ ഭാഗമായി ചെയ്തു മറുവശത്ത് user ലെവൽ നിർദ്ദേശങ്ങൾ അവയിൽ രണ്ടോ മൂന്നോ എണ്ണം മാത്രമാണ് ഒരു നിർദ്ദേശം എൻക്ലേവിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ അനുവദിക്കും മറ്റൊന്ന് എൻക്ലേവിൽ നിന്ന് പുറത്തുപോകാൻ മൂന്നാമത്തേത് resume എന്ന് വിളിക്കുന്നു ഇത് ഒരു തടസ്സമോ ഒഴിവാക്കലോ സംഭവിച്ചതിന് ശേഷം user മോഡിൽ ഒരു അപ്ലിക്കേഷൻ പുനരാരംഭിക്കാൻ അനുവദിക്കും ഈ വിവിധ നിർദ്ദേശങ്ങളുടെ ഒരു അവലോകനം നോക്കാം ആദ്യത്തേത് എൻക്ലേവ് സൃഷ്ടിക്കുക എന്നതാണ് അത് ECREATE ഇൻസ്ട്രക്ഷൻ ആണ് ഒരു ആപ്ലിക്കേഷൻ ഒരു എൻക്ലേവ് സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഒരു സിസ്റ്റം കോൾ ചെയ്യേണ്ടതുണ്ട് സിസ്റ്റം കോളിനുള്ളിൽ എൻക്ലേവ് സൃഷ്ടിക്കൽ സഹായിക്കുന്ന ഒരു ECREATE നിർദ്ദേശം ഉണ്ടായിരിക്കും ECREATE ആവശ്യപ്പെടുമ്പോൾ പിആർഎമ്മിൽ PRMProcessor Related Memory ഒരു SECS ഘടന സൃഷ്ടിക്കും ഈ SECS ഘടനയിൽ പ്രോസസ്സറുമായി ബന്ധപ്പെട്ട മെമ്മറി എൻക്ലേവിനെക്കുറിച്ചുള്ള ആഗോള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു എസ്ജിഎക്സിന്റെ സവിശേഷമായ കാര്യം മുഴുവൻ വിർച്വൽ സ്പെയ്സിലും എൻക്ലേവ് എവിടെയായിരിക്കണമെന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് തിരഞ്ഞെടുക്കാനും നിയന്ത്രിക്കാനും കഴിയും എന്നതാണ് ഉദാഹരണത്തിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഒരു പ്രത്യേക വിർച്വൽ address പേജ് തിരഞ്ഞെടുക്കാനും ഈ പ്രത്യേക പേജിൽ എൻക്ലേവ് സൃഷ്ടിക്കേണ്ടതിനെക്കുറിച്ചു ഹാർഡ്വെയറിലേക്ക് അറിയിക്കാനും കഴിയും ഹാർഡ്വെയർ പരിരക്ഷണ സംവിധാനങ്ങൾ കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പേജോ എൻക്ലേവ് ഉള്ള അഡ്രെസ്സ് ഓ തിരഞ്ഞെടുക്കാൻ കഴിയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത അതിന് ആ പ്രത്യേക പേജിലെ ഉള്ളടക്കങ്ങൾ വായിക്കാനോ എഴുതാനോ കഴിയില്ല മറിച്ച് ആ പേജ് കൈകാര്യം ചെയ്യുക മാത്രമേ സാധിക്കൂ കൂടാതെ പേജ് സൃഷ്ടിക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് മോഡ് പോലുള്ള മറ്റ് വശങ്ങൾ അതായത് 32 ബിറ്റ് അല്ലെങ്കിൽ 64 ബിറ്റുകൾ ആണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് ഇതിന് പിന്തുണയ്ക്കേണ്ട പ്രോസസർ സവിശേഷതകളും നിർദ്ദിഷ്ട എൻക്ലേവിനുള്ളിൽ ഡീബഗ് അനുവദനീയമോ അല്ലയോ തുടങ്ങിയവയും വ്യക്തമാക്കേണ്ടതുണ്ട് Refer Slide Time 0712 Create കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ഒരു EADD നിർദ്ദേശമാണ് EADD ഒരു privileged instruction കൂടിയാണ് അതിനാൽ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ EADD ആരംഭിക്കുന്നതിന് മുമ്പ് എൻക്ലേവ് കോഡോ ഡാറ്റയോ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഇസിഎസ് പേജ് തിരഞ്ഞെടുക്കാൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കഴിയും സാധാരണഗതിയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഈ പ്രത്യേക പേജ് മാനേജുചെയ്യാൻ കഴിയും പക്ഷേ യഥാർത്ഥത്തിൽ ആ പേജിന്റെ ഉള്ളടക്കങ്ങൾ വായിക്കാനോ എഴുതാനോ കഴിയില്ല EADD രണ്ടു കാര്യങ്ങൾ ചെയ്യും ആദ്യത്തേത് മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടതുപോലെ EPCM start ചെയ്യും എല്ലാ ഇസിഎസ് പേജിനും അനുബന്ധമായ ഇപിസിഎം എൻട്രി ഉണ്ട് അത് ഇസിഎസ് പേജ് മാപ്പാണ് അതിൽ ഇസിഎസ് പേജിനായുള്ള പ്രത്യേകാവകാശങ്ങളും പ്രവേശന നിയന്ത്രണവും അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ കണ്ടതുപോലെ ഇതിന് റീഡ് റൈറ്റ് എക്സിക്യൂട്ട് അനുമതികൾ ഉണ്ട് ലീനിയർ വിലാസം ആ പ്രത്യേക പേജിലേക്ക് പ്രവേശിക്കുകയും കൂടാതെ പേജ് type സംബന്ധിച്ച് ടിസിഎസ് അല്ലെങ്കിൽ ആർഇജി എന്നിങ്ങനെയുള്ള ചില വിവരങ്ങളും ഇതിലുണ്ട് പ്രോസസ്സറിൽ EADD പൂർണ്ണമായും നടപ്പിലാക്കുന്നു തുടർന്ന് SECS ൽ സംഭരിച്ചിരിക്കുന്ന ഒരു ക്രിപ്റ്റോ ലോഗിൽ EPCM ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നു തുടക്കത്തിൽ ECREATE നിർദ്ദേശത്തിനിടയിലാണ് SECS സൃഷ്ടിക്കപ്പെടുന്നത് ഓരോ ECSനും EADD സമയത്ത് ചില ലോഗുകൾ കൂട്ടിച്ചേർക്കപ്പെടും തുടർന്ന് ഇസിഎസ് fill ചെയ്യുന്നു അതായത് ഹാർഡ് ഡിസ്കിൽ നിന്ന് 4 കിലോ ബൈറ്റുകൾ ഡാറ്റ ആപ്ലിക്കേഷൻ ബൈനറിയിൽ നിന്ന് DRAM ലേക്കുള്ള ഇസിഎസ് പേജിലേക്ക് പകർത്തുന്നു ഈ ഹാർഡ് ഡിസ്കിലും DRAM ലും ഉള്ള ഡാറ്റ പ്രോസസറിന് പുറത്ത് ആയതിനാൽ ഈ ഡാറ്റയെല്ലാം എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രോസസറിന് പുറത്തുള്ള ഏതെങ്കിലും വിവരങ്ങൾ പ്രോസസറിന് പുറത്ത് നിലവിലുള്ള ഏതെങ്കിലും എൻക്ലേവ് ഡാറ്റയോ കോഡോ എൻക്രിപ്റ്റ് ചെയ്ത അവസ്ഥയിൽ ആയിരിക്കും എന്ന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് രഹസ്യാത്മകത ഉറപ്പാക്കുന്നു മാത്രമല്ല സമഗ്രത വളർത്തിയെടുക്കാനും ഇത് ഉപയോഗിക്കാം എൻക്ലേവിലുള്ള എല്ലാ പേജുകളും EADD നിർദ്ദേശം ഉപയോഗിച്ച് ചേർത്തതിനുശേഷം ഉദാഹരണത്തിന് 20 വ്യത്യസ്ത പേജുകളുണ്ടെങ്കിൽ 20 വ്യത്യസ്ത തവണ EADD അഭ്യർത്ഥിക്കും ഒരു സിസ്റ്റത്തിന് EEXTEND വിളിക്കേണ്ടതുണ്ട് EEXTEND അടിസ്ഥാനപരമായി ഒരു EPC പേജിലെ 256 ബൈറ്റ് region അളക്കും ഈ പ്രദേശം ഡെവലപ്പർ ആണ് വ്യക്തമാക്കുന്നത് ഈ 256 ബൈറ്റ് region ൽ യഥാർത്ഥത്തിൽ SECS ൽ അടങ്ങിയിരിക്കുന്ന 64 ബിറ്റ് address ഉം 256 ബൈറ്റ് data ഉം ആണ് ഉള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു സമയം 256 ബൈറ്റുകൾ അളക്കുന്നതിനാൽ പേജ് മുഴുവനും അളക്കാൻ EEXTEND ന്റെ 16 അഭ്യർത്ഥനകൾ ആവശ്യമാണ് അതിനാൽ എൻക്ലേവിന്റെ നിർമ്മാണം യഥാർത്ഥത്തിൽ എൻക്ലേവ് ഉടമയുമായി പൊരുത്തപ്പെടുന്നതിന് കാരണമാകും ഒരു അപ്ലിക്കേഷൻ ഡെവലപ്പർ ഒരു എൻക്ലേവ് സൃഷ്ടിക്കുമ്പോൾ വിവിധ ഇപിസി പേജുകളിലെ ഏതെല്ലാം പ്രദേശങ്ങൾ അളക്കണമെന്ന് ആപ്ലിക്കേഷൻ ഡവലപ്പർക്ക് വ്യക്തമാക്കാൻ കഴിയുമെന്നതിനാലാണ് യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ സമഗ്രത നേടാൻ കഴിയുന്നത് കൂടാതെ ആ പ്രത്യേക ഇപിസി പേജുകൾക്കായി ഒരു പ്രത്യേക signature വ്യക്തമാക്കാനും അദ്ദേഹത്തിന് കഴിയും അതിനാൽ ഈ വിവിധ ഇപിസി പേജുകളുടെ സൃഷ്ടി സമാനമാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പർ ഉദ്ദേശിച്ച അതേ signature ഉണ്ടെന്നതാണ് EEXTEND നിർദ്ദേശത്തിലൂടെ നമ്മൾ ഉറപ്പിക്കുന്നത് Refer Slide Time 1127 EEXTENDന് ശേഷം അടുത്ത നിർദ്ദേശം EINIT ആണ് EINIT വീണ്ടും ഒരു privileged നിർദ്ദേശമാണ് അതിനാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ചെയ്യണം എല്ലാ പേജുകളും ചേർത്തതിനുശേഷം ആണ് ഇത് invoke ചെയ്യപ്പെടുന്നത് കൂടാതെ signature ഉടമയുടെ signature മായി പൊരുത്തപ്പെടുന്നുണ്ടോയെന്ന് പരിശോധിക്കാനും കഴിയും EINIT വിജയകരമാണെങ്കിൽ അത് എൻക്ലേവ് ൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നു EINIT ന് ശേഷം ആദ്യ ഘട്ടം ഇവിടെ അവസാനിച്ചു നാം കണ്ട ആദ്യ ഘട്ടം ECREATE EADD EEXTEND EINIT എന്നിവ ഉൾപ്പെട്ടതാണ് ഈ 4 ഘട്ടങ്ങളും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ സിസ്റ്റം കോളുകൾ വിളിക്കുകയും എൻക്ലേവ് സൃഷ്ടിക്കാൻ അപ്ലിക്കേഷൻ സിസ്റ്റത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഈ 4 ഘട്ടങ്ങൾ കഴിഞ്ഞാൽ എൻക്ലേവ് ഉപയോഗിക്കാൻ തയ്യാറായി തുടർന്ന് എൻക്ലേവിലേക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനും ആപ്ലിക്കേഷന് EENTER EEXIT തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങൾ ഉപയോഗിക്കാം എൻക്ലേവിൽ അടങ്ങിയിരിക്കുന്ന ഒരു untrusted functionന് ഒരു trusted functionനെ invoke ചെയ്യാൻ ഉപയോഗിക്കാവുന്ന EENTERനെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം ആപ്ലിക്കേഷന്റെ വിശ്വസനീയമല്ലാത്ത ഭാഗം EENTER ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് കൈമാറ്റം ചെയ്യേണ്ട എൻക്ലേവിനുള്ളിലെ address EENTER നിർദ്ദേശത്തിന് അറിയേണ്ടതുണ്ട് അസിൻക്രണസ് എക്സിറ്റ് പോയിന്റർ എന്നറിയപ്പെടുന്ന ഒന്നിനെയും ഇത് നിർവചിക്കണം അത് നമ്മൾ പിന്നീട് കാണും അസിൻക്രണസ് എക്സിറ്റ് പോയിന്ററിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായി നോക്കാം ഇത് എൻക്ലേവ് മോഡിലെ ഇന്ററപ്റ്റ് മാനേജുമെന്റുമായി ബന്ധപ്പെട്ടതാണ് പ്രോസസർ EENTER നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ പ്രോസസർ ടിസിഎസ് ബിറ്റ് set ചെയ്യും എൻക്ലേവിലെ ടിസിഎസ് വളരെ busy ആണ് എന്നതിനർത്ഥം ഈ പ്രത്യേക എൻക്ലേവ് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇത് മോഡ് നോൺ എൻക്ലേവ് മോഡിൽ നിന്ന് എൻക്ലേവ് മോഡിലേക്ക് മാറ്റും തുടർന്ന് ഇത് സ്റ്റാക്ക് പോയിന്റർ ബേസ് പോയിന്റർ തുടങ്ങിയവയുടെ അവസ്ഥ save ചെയ്യുന്നു കൂടാതെ എഇപി എന്നറിയപ്പെടുന്ന ഒന്നുകൂടി save ചെയ്യുകയും ചെയ്യും സ്റ്റാക്കിലും ബേസ് പോയിന്ററിലും context സംരക്ഷിക്കുന്നപോലെ ഈ state കൾ സംരക്ഷിക്കപ്പെടുന്നതിനാൽ എൻക്ലേവിൽ നിന്ന് മടങ്ങിയതിന് ശേഷം സാധാരണ പ്രവർത്തന രീതി തുടരാം അവസാനമായി എൻക്ലേവിന് പുറത്ത് നിന്ന് എൻക്ലേവിനുള്ളിലേക്ക് ഒരു കൈമാറ്റം നടക്കുന്നു എല്ലാ അനുമതിയും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ എൻക്ലേവ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കും ഈ ഘട്ടങ്ങളെല്ലാം EENTER നിർദ്ദേശത്തിനിടയിലാണ് ചെയ്യുന്നത് EENTER എന്നത് ഒരു user മോഡ് നിർദ്ദേശമാണ് അതിനാൽ എൻക്രിപ്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്ലിക്കേഷൻ എൻക്ലേവ് മോഡിൽ എൻക്രിപ്ഷൻ പ്രവർത്തനക്ഷമമാക്കാൻ EENTER നെ ഉപയോഗിക്കാം എൻക്രിപ്ഷൻ പൂർത്തിയാക്കിയ ശേഷം അപ്ലിക്കേഷന് എൻക്ലേവ് മോഡിൽ നിന്നും എൻക്ലേവ് അല്ലാത്തതിലേക്കോ അല്ലെങ്കിൽ സാധാരണ പ്രവർത്തന രീതിയിലേക്കോ EEXIT സിസ്റ്റം കോൾ ഉപയോഗിച്ച് മടങ്ങാൻ കഴിയും അടിസ്ഥാനപരമായി ഈ നിർദ്ദേശത്തിൽ എൻക്ലേവ് മോഡ് ഫ്ലാഗ് മായ്ച്ചതായി പ്രോസസർ ഉറപ്പാക്കും അത് സാധാരണ മോഡിലേക്ക് മടങ്ങുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇത് വിവിധ ടിഎൽബി എൻട്രികൾ ഫ്ലഷ് ചെയ്യുകയും ടിസിഎസിനെ free എന്നു അടയാളപ്പെടുത്തുകയും എൻക്ലേവിനുള്ളിൽ നിന്ന് എൻക്ലേവിന് പുറത്തേക്ക് നിയന്ത്രണം കൈമാറുകയും ചെയ്യും ഇപ്പോൾ EENTER നിർദ്ദേശങ്ങൾ ഉള്ളപ്പോഴെല്ലാം എൻക്ലേവിൽ നിന്ന് പുറത്തുകടക്കാനുള്ള ഏക മാർഗം ഈ എൻക്ലേവ് നിർദ്ദേശമാണ് എന്നിരുന്നാലും ഇതിൽ ചില exceptions ഉണ്ട് എൻക്ലേവ് മോഡിൽ interrupt ഉണ്ടായാൽ അത് exception നു കാരണമാവുന്നു ഉദാഹരണത്തിന് എൻക്ലേവ് മോഡ് trusted function ഒരു എൻക്രിപ്ഷൻ നടപ്പിലാക്കുന്നുവെന്നും ഈ പ്രത്യേക കാലയളവിൽ ഒരു interrupt സംഭവിക്കുന്നുവെന്നും വിചാരിക്കുക ഈ സമയത്ത് പ്രോസസ്സറുകൾ ഇന്ററപ്റ്റിന് സേവനം നൽകേണ്ടതുണ്ട് ഇപ്പോൾ ഇത് കാര്യങ്ങൾ അൽപ്പം സങ്കീർണ്ണമാക്കുന്നു കാരണം interrupts asynchronous events ആണ് അതിനാൽ എൻക്ലേവിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പ്രോസസ്സറിന് ഈ ഇന്ററപ്റ്റ് സേവനം ചെയ്യേണ്ടതുണ്ട് ഇത് ചെയ്യുന്നതിന് എസ്ജിഎക്സ് പിന്തുണയ്ക്കുന്ന എഇഎക്സ് അല്ലെങ്കിൽ അസിൻക്രണസ് എക്സിറ്റ് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യയുണ്ട് എൻക്ലേവ് മോഡിലായിരിക്കുമ്പോഴും interrupts കൈകാര്യം ചെയ്യാൻ ഇതു അനുവദിക്കും ഈ അസിൻക്രണസ് എക്സിറ്റിൽ നിർണ്ണായകമാണ് എഇപി AEPAsynchronous Exit Pointer എന്നറിയപ്പെടുന്ന ഒന്ന് അത് അസിൻക്രണസ് എക്സിറ്റ് പോയിന്ററിനെ സൂചിപ്പിക്കുന്നു EENTER നിർദ്ദേശത്തിനിടെയാണ് അസിൻക്രണസ് എക്സിറ്റ് പോയിന്റർ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന കാര്യം ശ്രദ്ധിക്കുക എൻക്ലേവിന് പുറത്തുള്ള ചില മെമ്മറി സ്ഥാനം യഥാർത്ഥത്തിൽ വ്യക്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരു ഇന്ററപ്റ്റിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അത് ഒരു ഫംഗ്ഷനിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും അത് execute ചെയ്യുകയും ചെയ്യും എന്നതാണ് വസ്തുത അതിനാൽ സാധാരണഗതിയിൽ interrupts എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിൽ നിന്ന് ഇത് വ്യതിചലിക്കുന്നു ഒരു ഇന്ററപ്റ്റ് അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കുമ്പോഴെല്ലാം ഇത് ചെയ്യുന്നത് IRET നിർദ്ദേശം execute ചെയ്യുകയാണ് IRET നിർദ്ദേശങ്ങൾ പ്രധാനമായും മുൻ സന്ദർഭത്തെ enforce ചെയ്യുകയും interrupt ന് മുമ്പ് പ്രവർത്തിച്ചിരുന്ന പ്രോഗ്രാമിനെ തുടരാൻ അനുവദിക്കുകയും ചെയ്യും ഇവിടെ എസ്ജിഎക്സ് കാര്യങ്ങൾ അൽപം വ്യത്യസ്തമാണ് IRET നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോഴെല്ലാം എൻക്ലേവിലേക്ക് നേരിട്ട് പോകുന്നതിനുപകരം എഇപി ചൂണ്ടിക്കാണിച്ച ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു ഈ ഫംഗ്ഷൻ പിന്നീട് ERESUME എന്നറിയപ്പെടുന്ന നിർദ്ദേശം invoke ചെയ്യും ERESUME പ്രോസസ്സറിനെ എൻക്ലേവ് അല്ലാത്ത സ്ഥലത്ത് നിന്ന് എൻക്ലേവ് സ്ഥലത്തേക്ക് നീക്കാൻ പ്രേരിപ്പിക്കും ERESUME നിർദ്ദേശം എല്ലാ രജിസ്റ്ററുകളും പുനസ്ഥാപിക്കും ഇന്റൽ എസ്ജിഎക്സ് പിന്തുണയ്ക്കുന്ന മറ്റൊരു പ്രധാന വശം അറ്റസ്റ്റേഷൻ എന്നറിയപ്പെടുന്നു ഇതിൽ സിസ്റ്റത്തിന് യഥാർത്ഥത്തിൽ നെറ്റ്വർക്കിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു സെർവറിലൂടെയോ ഒരു പ്രത്യേക എസ്ജിഎക്സ് ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയും എൻക്ലേവിനായി കണക്കാക്കിയിരിക്കുന്ന signatures ആണ് ഇത് സാധ്യമാക്കുന്നത് കൂടാതെ ഒരു എൻക്ലേവിലെ എല്ലാ വിവരങ്ങളും യഥാർത്ഥത്തിൽ എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ട് തരം അറ്റസ്റ്റേഷൻ ടെക്നിക്കുകൾ ഉണ്ട് അവ ഇന്റർ മെഷീൻ ഇൻട്രാ മെഷീൻ എന്ന് അറിയപ്പെടുന്നു ഇൻട്രാ മെഷീൻ ഒരു സിസ്റ്റത്തിൽ ഒന്നിലധികം ആപ്ലിക്കേഷനുകൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഒരു നിർദ്ദിഷ്ട എൻക്ലേവ് ഉള്ള ഒരു ആപ്ലിക്കേഷന് തൻറെ പക്കലുള്ള enclave തൻറെതാണെന്ന് ഈ സിസ്റ്റത്തിലെ മറ്റൊരു ആപ്ലിക്കേഷനോട് തെളിയിക്കാൻ കഴിയും signatures ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഇന്റർ മെഷീൻ അറ്റസ്റ്റേഷനെക്കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം ആപ്ലിക്കേഷന് തൻറെ പക്കൽ ഒരു നിർദ്ദിഷ്ട എൻക്ലേവ് ഉണ്ടെന്ന് ഒരു മൂന്നാം കക്ഷിയെ ഇന്റർനെറ്റിലൂടെ അറിയിക്കാൻ കഴിയും എന്നതാണ് ഇതിന് നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഇന്റൽ ന്റെ PoET അതിനു ഒരു ഉദാഹരണമാണ് ഇത് ബ്ലോക്ക് ചെയിനിനുള്ള ഒരു സാങ്കേതികത വിദ്യയാണ് അറ്റസ്റ്റേഷന്റെ ഈ സവിശേഷത വളരെ പ്രയോജനകരമാണ് മാത്രമല്ല ഒരു പ്രത്യേക എൻക്ലേവ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നും ചില നിർദ്ദിഷ്ട ജോലികൾ ചെയ്തിട്ടുണ്ടെന്നും സിസ്റ്റങ്ങൾക്ക് നെറ്റ്വർക്കിലെ മറ്റു സിസ്റ്റത്തോട് തെളിയിക്കാൻ കഴിയും MRENCLAVE എന്നറിയപ്പെടുന്ന ഒരു രജിസ്റ്റർ കാരണം അറ്റസ്റ്റേഷൻ സാധ്യമാണ് എൻക്ലേവ് നടത്തിയ പ്രവർത്തനം അളക്കുന്ന ഒരു ആന്തരിക ലോഗിന്റെ ഹാഷ് കണ്ടുപിടിക്കുന്നതിനു MRENCLAVE SHA 256 ഉപയോഗിക്കുന്നു കോഡിന്റെ signatures ഡാറ്റാ സ്റ്റാക്ക് എൻക്ലേവിലെ heap പേജുകളുടെ relative positions എൻക്ലേവ് സുരക്ഷയുമായി ബന്ധപ്പെട്ടവ flag എന്നിങ്ങനെയുള്ള വിവിധ വശങ്ങൾ ലോഗിൽ അടങ്ങിയിരിക്കുന്നു അറ്റസ്റ്റേഷൻ പ്രോസസ്സ് എന്ന ഈ പ്രത്യേക പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് "Innovative Technologies for CPU based Attestation and Sealing" എന്ന പേപ്പർ നോക്കാം ഇത് HASP 2015 ൽ പ്രസിദ്ധീകരിച്ചു നന്ദി